ലാപ്ലേസസ് ഇക്വേഷൻ ചില ഭൌതിക പ്രതിഭാസങ്ങളിൽ നമ്മൾ ഇതുവരെ സ്ഥിതവൈദ്യുത പൊട്ടൻഷ്യൽ അഥവാ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കാണാനായാണ് ലാപ്ലേസസ് ഇക്വേഷൻ Laplace's equation ഉപയോഗിച്ചിരുന്നത് അടുത്തതായി ഈ ഇക്വേഷൻ സാധൂകരിക്കാൻ പറ്റിയ മറ്റു ചില സന്ദർഭങ്ങൾ നോക്കാം ഇതുവഴി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അത്തരം സന്ദർഭങ്ങളുമായി ബന്ധപ്പെടുത്താനും അതിലൂടെ അവയെക്കുറിച്ച് കൂടുതൽ ഉൾകാഴ്ച ഉണ്ടാക്കാനും സാധിക്കും ആദ്യമായി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂയിറ്റി ഇക്വേഷൻ ആണ് ഇവിടെ ആവശ്യമായ ഇക്വേഷനുകൾ കാണുന്നതിനായി ഞാൻ ഡൈവേർജൻസ് തിയറം Divergence theorem ഉപയോഗിക്കുകയാണ് നമുക്കിവിടെ ഒരു ദ്രാവകം അല്ലെങ്കിൽ താപം ഒരിടത്തുനിന്നും മറ്റൊരിടത്തേക്ക് ഒഴുകുന്നതായി അതുമല്ലെങ്കിൽ കണങ്ങൾ ഒരു സ്ഥലത്തുനിന്നും മറ്റൊരിടത്തേക്ക് വ്യാപിക്കുന്നതായി സങ്കല്പിക്കാം ഇവിടെ വ്യത്യസ്ത സന്ദർഭങ്ങൾ ഞാൻ പല കളറിൽ രേഖപ്പെടുത്തിയിരിയിരിക്കുന്നു അപ്പോൾ കണ്ടിന്യൂയിറ്റി ഇക്വേഷൻ അനുസരിച്ച് ഇതിന്റെ വിശദീകരണം എന്താണെന്ന് നോക്കാം ഇങ്ങനെ ഒഴുകുന്ന ദ്രാവകം അല്ലെങ്കിൽ താപം അല്ലെങ്കിൽ കണങ്ങളുടെ ഒരു നിശ്ചിത വോളിയം എടുത്താൽ അതിൽ കൂടെയുള്ള കറന്റ് നേരത്തെ നമ്മൾ നിർവ്വചിച്ചിട്ടുണ്ട് ഈ കറന്റ് j എന്നത് യൂണിറ്റ് ഏരിയ യിൽ കൂടെ യൂണിറ്റ് ടൈമിൽ ഒഴുകുന്ന ക്വാണ്ടിറ്റി യാണ് ക്വാണ്ടിറ്റി എന്ന് പറയാൻ കാരണം ഇവിടെ ദ്രാവകം താപം കണങ്ങൾ ഇവയേതുമാകാം അതായത് ഈ കറന്റ് ദിശ അഥവാ ഡയരക്ഷൻ കൂടി ഉള്ളതാണ് അതുകൊണ്ടുതന്നെ ഒരു നിശ്ചിത ദിശയിലേക്കാണ് ഇത് ഒഴുകുന്നത് അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന വോളിയം ഇതാണെങ്കിൽ ഇതിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന ആകെ മൊത്തം ദ്രവ്യത്തിന്റെ അളവ് ലഭിക്കാൻ ഈ വോളിയത്തിന്റെ ഓരോ പ്രതലത്തിലെയും j ds കണ്ട് മുഴുവൻ വോളിയത്തിലുമായി ഇന്റഗ്രേറ്റ് ചെയ്യണം എന്തുകൊണ്ടാണ് ഞാനിവിടെ പുറത്തേക്കൊഴുകുന്ന അളവ് എന്ന് തന്നെ പറയാൻ കാരണം എന്തുകൊണ്ട് അകത്തേക്കൊഴുകുന്നത് എന്ന് പറയുന്നില്ല കാരണം s ന്റെ ദിശ വോളിയത്തിൽ നിന്നും പുറത്തേക്കാണ് അപ്പോൾ j ds പോസിറ്റീവ് ആണെങ്കിൽ അതിനർത്ഥം ഇതിൽ നിന്നും ദ്രവ്യം പുറത്തേക്കൊഴുകുന്നു എന്നും j ds നെഗറ്റീവ് ആയാൽ അതിനർത്ഥം ദ്രവ്യം ഉള്ളിലേക്ക് കടക്കുന്നു എന്നുമാണ് അപ്പോൾ j യും s ഉം ഒരേ ദിശയിലാണെങ്കിൽ ദ്രവ്യം പുറത്തേക്കൊഴുകുന്നു എന്നർത്ഥം ds എന്നത് വോളിയത്തിന്റെ ഉള്ളിൽ യൂണിറ്റ് ടൈമിലുള്ള ദ്രവ്യത്തിന്റെ കുറവിനെകൂടി കാണിക്കുന്നു അതായത് j ds യൂണിറ്റ് ടൈമിൽ വോളിയത്തിൽ നിന്നും പുറത്തേക്കൊഴുകുന്ന ദ്രവ്യം യൂണിറ്റ് ടൈമിൽ വോളിയത്തിലെ ദ്രവ്യത്തിലുണ്ടാകുന്ന കുറവ് നമുക്ക് ദ്രവ്യത്തിന്റെ സാന്ദ്രത അഥവാ ഡെൻസിറ്റി ρ എന്നത് നമ്മൾ സങ്കൽപ്പിച്ച ചെറിയ വോളിയത്തിന്റെ ഉള്ളിൽ r എന്ന സ്ഥാനത്തുള്ള ഡെൻസിറ്റി ആയി നിർവചിക്കാം അപ്പോൾ j ds വോളിയത്തിന്റെ മുഴുവൻ പ്രതലത്തിലും കണ്ടാൽ ഇവിടെ ദ്രവ്യത്തിന്റെ അളവ് കുറയുന്നു എന്ന് കാണിക്കാനാണ് നെഗറ്റീവ് സൈൻ ഇട്ടിരിക്കുന്നത് ഇടതുവശത്തുള്ള പദം നമുക്ക് ഡൈവേർജൻസ് തിയറം അനുസരിച്ച് മാറ്റി എഴുതാം അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റി എഴുതിയാൽ എന്ന് ലഭിക്കും നമ്മളിവിടെ എടുത്തിരിക്കുന്ന ചെറിയ വോളിയത്തിന്റെ വലുപ്പവും ആകൃതിയും ഏതുമാവാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യൂബ് രൂപത്തിലാണ് അതായത് അതിനർത്ഥം വോളിയം dV ആർബിട്രേറി അഥവാ മാറാവുന്നതാണെന്നാണ് ഇക്വേഷൻ അനുസരിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം ഇത് യഥാർത്ഥത്തിൽ കൺസർവേഷൻ ഓഫ് മാസ്സ് അഥവാ ഇവിടെ ഈ ദ്രവ്യത്തിന്റെ കൺസർവേഷൻ എന്ന ആശയത്തിൽ നിന്നും ഉടലെടുത്തിരിക്കയാണ് ഈ ഇക്വേഷനെയാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂയിറ്റി അഥവാ കണ്ടിന്യൂയിറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൻസിറ്റി ρ ഇവിടെ മാറ്റമില്ലാതെയിരിക്കയാണെങ്കിൽ അതിനർത്ഥം ഡൈവേർജൻസ് സീറോ ആണെന്നാണ് അതായത് നമ്മൾ ഡൈവേർജൻസ് എന്നതിനെ നിർവ്വചിച്ചപോലെ ഇവിടെയും വോളിയത്തിന്റെ ഉള്ളിലേക്ക് വരുന്ന അളവ് തന്നെ പുറത്തേക്കും പോകുന്നുവെന്നാണ് അതായത് കറന്റിന്റെ ഡൈവേർജൻസ് സീറോ ആണെന്നർത്ഥം ഈ ആശയം നമുക്ക് രണ്ട് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പ്രയോഗിച്ചു നോക്കാം ഈ ഉദ്യമം നിങ്ങൾക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിനെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു അനുഭവം പ്രദാനം ചെയ്യാൻ ഉതകുന്നതാണ് ആദ്യത്തെ ഉദാഹരണമായി താപത്തിന്റെ ഒഴുക്ക് അഥവാ താപപ്രവാഹം ഏകമാന തലത്തിൽ അഥവാ വൺ ഡയമെൻഷനിൽ താപപ്രേഷണം നടക്കുമ്പോൾ യൂണിറ്റ് ഏരിയയിൽ കൂടി യൂണിറ്റ് സമയത്ത് ഉണ്ടാകുന്ന താപപ്രവാഹം അതായത് 1 A dQ dt എന്നത് താപീയ ചാലകത അഥവാ തെർമൽ കണ്ടക്റ്റിവിറ്റി K യെ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് dT dx കൊണ്ട് ഗുണിച്ചതായിരിക്കുമെന്ന് നിങ്ങൾ 12th ഗ്രേഡിൽ പഠിച്ചിട്ടുണ്ടല്ലോ അതായത് ഇവിടെ നെഗറ്റീവ് സൈൻ ഇട്ടിരിക്കുന്നത് താപം പ്രവഹിക്കുന്നത് ടെമ്പറേച്ചർ കുറവുള്ള ദിശയിലേക്കാണെന്നു കാണിക്കാനാണ് ത്രിമാന തലത്തിൽ അഥവാ 3 ഡയമെൻഷനിൽ യൂണിറ്റ് ഏരിയയിൽ കൂടി യൂണിറ്റ് സമയത്ത് ഉണ്ടാകുന്ന താപപ്രവാഹം എന്നതിന് ഹീറ്റ് കറന്റ് j എന്നെഴുതാം അതുപോലെ വൺ ഡയമെൻഷനിൽ dT dx എന്നെടുത്തതിനു പകരം ഇവിടെ 3 ഡയമെൻഷനിൽ T എടുക്കണം അപ്പോൾ അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ ഇവിടെയും ഒരു ചെറിയ വോളിയം സങ്കല്പിച്ചാൽ ഇതിൽ നിന്നും പുറത്തേക്ക് ഹീറ്റ് കറന്റ് ഒഴുകുന്നതിനനുസരിച്ച് ഉള്ളിലുള്ള താപത്തിന്റെ അളവിൽ അല്ലെങ്കിൽ താപോർജ്ജത്തിന്റെ അളവിൽ കുറവുണ്ടാകുന്നു ഇവിടെ നമ്മൾ എന്ന കണ്ടിന്യൂയിറ്റി സമവാക്യം പ്രയോഗിക്കുന്നു ഇങ്ങനെ പുറത്തേക്കൊഴുകുന്ന താപം ആയിരിക്കും ഇവിടെ C എന്നത് ഏതിലേക്കാണോ താപം പ്രവഹിക്കുന്നത് അതിന്റെ വിശിഷ്ട താപധാരിത അഥവാ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ് അപ്പോൾ ഈ ഇക്വേഷനിൽ j യുടെ സബ്സ്റ്റിട്യൂഷൻ ചെയ്താൽ അതായത് തന്നിരിക്കുന്ന ബൌണ്ടറി കണ്ടിഷൻ അനുസരിച്ച് ടെമ്പറേച്ചർ ടൈമിനനുസൃതമായി എങ്ങനെ മാറുന്നു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ അനുസരിച്ച് ഇവിടെ 2 എന്നതിനെ ലാപ്ലേഷ്യൻ അഥവാ ലാപ്ലേസ് ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നു സ്റ്റെഡി സ്റ്റേറ്റ് കണ്ടീഷനിൽ അതായത് ടൈമിനനുസരിച്ച് ടെമ്പറേച്ചർ മാറാതിരിക്കുന്ന കണ്ടീഷനിൽ ഉദാഹരണമായി ഇവിടെ ഒരു വോളിയം സങ്കൽപ്പിച്ച് അതിൽ പല പല സ്ഥാനങ്ങളിൽ ഉള്ള ടെമ്പറേച്ചർ മാറാതിരുന്നാൽ ഇതെല്ലം ഒരേ ടെമ്പറേച്ചർ ആകണമെന്നില്ല ഉദാഹരണമായി ഇവിടെ ഒരു ടെമ്പറേച്ചർ ഇവിടെ വേറൊരു ടെമ്പറേച്ചർ അങ്ങനെ ഉള്ള വ്യത്യസ്ത ടെമ്പറേച്ചർ മാറാതെ സ്റ്റെഡി ആയി നിൽക്കുകയാണെന്നു കരുതുക അതായത് ടൈമിനനുസരിച്ച് ടെമ്പറേച്ചർ മാറാതിരിക്കുന്നു കാരണം സിസ്റ്റം സ്റ്റെബിലൈസ്ഡ് ആയിരിക്കുന്നു എങ്കിൽ dT dt 0 അതായത് ഇതാണ് സ്റ്റെഡി സ്റ്റേറ്റ് ടെമ്പറേച്ചർ ഇക്വേഷൻ ഈ ഇക്വേഷനെ 2V0 എന്ന ഇക്വേഷനുമായി താരതമ്യം ചെയ്യാം ഇതിൽ V യുടെ സ്ഥാനത്ത് T എന്ന് എടുത്തെന്നു മാത്രം സർഫസിൽ പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആക്കി നിലനിർത്തുന്നു എന്നതിന് സമാനമാണ് Tat boundary Vat boundary അപ്പോൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ വിശകലനം ചെയ്താൽ നമുക്ക് സൊല്യൂഷൻ ലഭിക്കുന്നതാണ് 2T 0 എന്ന ഈ ഇക്വേഷനെ ഹീറ്റ് ഡിഫ്യൂഷൻ ഇക്വേഷൻ എന്ന് വിളിക്കുന്നു അടുത്തതായി ഞാൻ നിങ്ങൾക്കറിയാവുന്ന ഒരു ഉദാഹരണവുമായി നമ്മളിവിടെ പഠിച്ച കാര്യങ്ങൾ ബന്ധപ്പെടുത്തുകയാണ് വലിയ കെട്ടിടങ്ങൾക്കു മുകളിൽ പിടിപ്പിച്ചിരിക്കുന്ന ലൈറ്റിനിങ് കണ്ടക്ടർ അഥവാ മിന്നൽ രക്ഷാ ചാലകങ്ങൾക്ക് വളരെ കൂർത്ത അഗ്രഭാഗങ്ങളുണ്ടെന്നും അതുകാരണം അവിടെ ഇലക്ട്രിക്ക് ഫീൽഡ് അഥവാ വൈദ്യുത മണ്ഡലം വളരെ കൂടുതലായിരിക്കുമെന്നും നിങ്ങൾ പഠിച്ചതാണല്ലോ ഇലക്ട്രിക്ക് ഫീൽഡ് വളരെ കൂടുതലായതിനാൽ അന്തരീക്ഷത്തിലെ ഒട്ടു മിക്ക ചാർജും അഥവാ കറന്റും ഈ അഗ്രഭാഗങ്ങളിലേക്കെത്തുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മിന്നൽ ഇതിൽ പതിക്കുന്നു അവിടെനിന്നും ചാർജ് നേരിട്ട് ഭൂമിയിലേക്ക് ഒഴുകുന്നു ഇത് നമുക്ക് വിശകലനം ചെയ്തു നോക്കാം നിങ്ങൾക്കറിയാം ഹീറ്റ് കറന്റ് j T അതുപോലെ തന്നെ ഇലക്ട്രിക്ക് ഫീൽഡ് E V അപ്പോൾ വോൾട്ടേജ് V യും ഇലക്ട്രിക്ക് ഫീൽഡ് E യും തമ്മിലുള്ള അതെ ബന്ധമാണ് ടെമ്പറേച്ചർ T യും ഹീറ്റ് കറന്റ് j യും തമ്മിൽ ഇവിടെ ഇലക്ട്രിക്ക് ഫീൽഡ് E അഗ്രഭാഗങ്ങളിൽ വളരെ കൂടുതൽ ആണല്ലോ മറ്റു ബാഹ്യ ചാർജുകൾ ഇല്ല ഇവിടെ ലാപ്ലേസ് ഇക്വേഷൻ പ്രയോഗിച്ചു അതേപോലെ താപ പ്രവാഹത്തിന്റെ കാര്യത്തിലും സോഴ്സ് സിങ്ക് ഇവയൊന്നുമില്ലാത്തപ്പോൾ സ്റ്റെഡി സ്റ്റേറ്റിൽ ഹീറ്റ് കറന്റ് അല്ലെങ്കിൽ താപ പ്രവാഹം T യ്ക്ക് ആനുപാതികമായിരിക്കും ലൈറ്റിനിങ് കണ്ടക്ടറുകളിൽ E യുടെ കാര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ കൂർത്ത അഗ്രഭാഗങ്ങളിൽ ഫീൽഡ് വളരെ ശക്തമാണ് അതേപോലെ ഇവിടെയും ഹീറ്റ് കറന്റ് T യ്ക്ക് ആനുപാതികമായതിനാൽ അഗ്രഭാഗങ്ങളിൽ താപ പ്രവാഹം വളരെ തീവ്രമാകണം ഇത് ദൈനം ദിന ജീവിതത്തിൽ എപ്പോഴെങ്കിലും അനുഭവപ്പെടാറുണ്ടോ അടുത്തപ്രാവശ്യം നിങ്ങൾ ഐസ് സ്റ്റിക് വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചു നോക്കൂ ഇതിന്റെ വശങ്ങളിൽ നിന്നും ഇത് ഉരുകി വരുന്നത് നിങ്ങൾക്ക് കാണാം വശങ്ങളിൽ നിന്നും ഉരുകാൻ തുടങ്ങുന്നത് കൊണ്ട് അവിടെ റൌണ്ട് ആയി മാറുന്നത് കാണാം കാരണം വശങ്ങളിൽ T ഏറ്റവും കൂടുതലും അതുകാരണം അവിടെ താപ പ്രവാഹം അഥവാ ഹീറ്റ് കറന്റ് മാക്സിമവുമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രിക്ക് ഫീൽഡും താപ പ്രവാഹവും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ പൊട്ടൻഷ്യലും ടെമ്പറേച്ചറും തമ്മിലുള്ള ബന്ധം കിട്ടി കഴിഞ്ഞല്ലോ അടുത്തതായി പറയാൻ പോകുന്ന ഉദാഹരണം ഡിഫ്യൂഷൻ എന്ന പ്രതിഭാസവുമായി ബന്ധപ്പെട്ടാണ് ഡിഫ്യൂഷൻ നിങ്ങൾ ഒരു ദ്രവ്യത്തിൽ മറ്റേതെങ്കിലും വസ്തുക്കൾ ഇട്ടാൽ ഇത് ഡിഫ്യൂസ് ചെയ്ത് അതിലാകമാനം വ്യാപിക്കുന്നു ബാഷ്പീകരണം അഥവാ ഇവാപൊറേഷൻ ഒരുതരത്തിലുള്ള ഡിഫ്യൂഷൻ ആയി കണക്കാക്കാം ഇവിടെ ഫിക്സ് ലോ Fick's law അനുസരിച്ച് ഡിഫ്യൂഷൻ കറന്റ് ഡിഫ്യൂസ് ചെയ്യപ്പെടുന്ന കണങ്ങളുടെ ഡെൻസിറ്റി ഗ്രേഡിയന്റിന് ആനുപാതികമായിരിക്കും അതായത് ഗ്രേഡിയൻറ് കോയെഫിഷ്യന്റ് D എടുത്താൽ അപ്പോൾ ഗ്രേഡിയൻറ് വളരെ കൂടുതലാകുമ്പോൾ ഡിഫ്യൂഷൻ കറന്റ് കൂടുന്നു ഗ്രേഡിയൻറ് വളരെ ചെറുത് അല്ലെങ്കിൽ സീറോ ആകുമ്പോൾ ഡിഫ്യൂഷൻ തീരെ ഉണ്ടാകുന്നില്ല അടുത്തതായി ഇവിടെ കണ്ടിന്യൂയിറ്റി ഇക്വേഷൻ പ്രയോഗിക്കാം അപ്പോൾ അവസാനത്തെ പദം കണങ്ങളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവിനെ കാണിക്കുന്നു സ്റ്റെഡി സ്റ്റേറ്റിൽ അതായത് ഗ്രേഡിയൻറ് കോൺസ്റ്റന്റ് ആയി നിലനില്കുമ്പോൾ ഉള്ളിലേക്കും പുറത്തേക്കും പ്രവാഹമില്ലാത്ത ഒരു അവസ്ഥ സംജാതമാകുന്നു അപ്പോൾ അപ്പോൾ വീണ്ടും ലാപ്ലേസ് ഇക്വേഷൻ ലഭിച്ചിരിക്കുന്നു ഇവിടെ ഇവിടെയും ഡിഫ്യൂഷൻ കറന്റ് j എന്നത് ഇലക്ട്രിക്ക് ഫീൽഡ് E യ്ക്കും ρ എന്നത് പൊട്ടൻഷ്യൽ V യ്ക്കും സമാനമാണ് വീണ്ടും നേരത്തെ കിട്ടിയതിനു സമാന റിസൾട്ട് ലഭിച്ചിരിക്കയാണ് അതുകൊണ്ടുതന്നെ ഇവിടെയും വശങ്ങളിൽ നിന്നുള്ള ഡിഫ്യൂഷൻ വളരെ കൂടുതലായിരിക്കണം നിങ്ങൾക്ക് ഇത് എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ അടുത്ത പ്രാവശ്യം ഉരുളക്കിഴങ്ങ് വറുത്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ നേർത്ത വശങ്ങളുള്ള മറ്റെന്തെങ്കിലും വറുക്കുമ്പോൾ ശ്രദ്ധിച്ചുനോക്കൂ വറുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വറുക്കുമ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന ജലാംശം ആവിയായി പുറത്തേക്കു പോകുന്നു അതായത് ഡിഫ്യൂസ് ചെയ്ത് പുറത്തേക്ക് പോകുന്നു ഇവിടെ സ്റ്റെഡി സ്റ്റേറ്റ് സംജാതമായി എന്ന് സങ്കല്പിച്ചാൽ എവിടെയായിരിക്കും മാക്സിമം ഡിഫ്യൂഷൻ നടക്കാൻ സാധ്യത തീർച്ചയായും വശങ്ങളിലായിരിക്കും കൂടുതൽ ഡിഫ്യൂഷൻ എന്ന് നിങ്ങൾക്കറിയാം കാരണം അവിടെയാണ് ഫീൽഡ് ഏറ്റവും കൂടുതൽ അതായത് ഡിഫ്യൂഷൻ കറന്റ് മാക്സിമം ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് വശങ്ങൾ വേഗം ഫ്രൈ ആകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ലാപ്ലേസ് ഇക്വേഷൻ നമുക്ക് പരിചിതമായ ചില സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ഉദാഹരണങ്ങളുമായി ബന്ധിപ്പിക്കുകയാണ് അതുകൊണ്ടുതന്നെ അടുത്ത പ്രാവശ്യം ഇവ കാണുമ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രിക്ക് ഫീൽഡിനെ കുറിച്ചുള്ള ഒരു അനുഭവം ലഭിക്കുന്നതാണ്